ഇനി നമുക്ക് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻറെ ഇന്റെലക്ച്വൽ പാർട്ട് അഥവാ ബുദ്ധിപരമായ വശം നോക്കാം ഇന്റെലക്ച്വൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബുദ്ധിയിൽ നിന്നും വരുന്ന കാര്യങ്ങൾ എന്നതാണ് ഇന്റെലക്ച്വൽ ആയിരിക്കുക അല്ലെങ്കിൽ ബുദ്ധിയുള്ളവനായിരിക്കുക എന്നു പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള പ്രത്യേക സിദ്ധിയുണ്ടായിരിക്കുക എന്നാണ് ചിലപ്പോഴൊക്കെ അത് വളരെ സങ്കീർണവുമാണ് അതുകൊണ്ട് ഇന്റെലക്ച്വൽ ആയിരിക്കുക എന്നുപറഞ്ഞാൽ ഒരുപക്ഷേ വളരെ സങ്കീർണമായ ആശയങ്ങളെ പോലും മനസ്സിലാക്കാനും അതിന്മേൽ ചിന്തിക്കാനും സാധിക്കുക എന്നതാണ് അതുകൊണ്ട് ആശയം എന്ന് പറയുന്നത് മാനസികമായ അധ്വാനത്തിൽ നിന്ന് അല്ലെങ്കിൽ മനസ്സിൻറെ അധ്വാനത്തിൽ നിന്ന് വരുന്നതാണ് ശ്രദ്ധാപൂർവമായ പരിചിന്തനത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ഒരു ആശയം എന്നും നമുക്ക് പറയാം ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുമായി ബന്ധപ്പെടുത്തി ഇന്റെലക്ച്വൽ അഥവാ ബുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന സൃഷ്ടിപരതയെയാണ് ബുദ്ധിപരമായ അധ്വാനം കൊണ്ട് ഉണ്ടാകുന്ന സൃഷ്ടിപരമായ ഫലത്തെയാണ് അതുമല്ലെങ്കിൽ സ്ഥിരവും ശ്രദ്ധാപൂർവ്വകവുമായ പരിചിന്തനത്തിൽ നിന്നും ഉദ്ഭൂതമാകുന്ന ആശയത്തെയാണ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അത് സംരക്ഷിക്കുന്ന വസ്തുവിൻറെ സ്വഭാവത്തെ വിശദികരിക്കുന്നു ഉദാഹരണത്തിന് പേറ്റൻറ് കണ്ടുപിടിത്തങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സംരക്ഷിക്കുന്ന ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആ കണ്ടുപിടിത്തം തന്നെയാണ് ആ കണ്ടുപിടിത്തം ആകട്ടെ മനുഷ്യൻറെ സൃഷ്ടിപരമായ അധ്വാനത്തിൽ നിന്ന് ഉളവാകുന്നതാണ് ആ കണ്ടുപിടിത്തം ഒരുപക്ഷേ ആ വ്യക്തിയുടെ ഭാഗ്യത്തിന് ഓർക്കാപ്പുറത്ത് സംഭവിച്ചതായിരിക്കാം എന്നുവരികിലും അത് വ്യക്തിയുടെ ബുദ്ധിയോടാണ് നമ്മൾ ചേർത്തു വയ്ക്കുന്നത് ആ വ്യക്തിയുടെ ബുദ്ധിയുടെ ഫലമായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി എങ്ങനെയാണ് വെളിപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കസേര ഉണ്ടാക്കുന്ന ഒരു ആശാരിയുടെ ഉദാഹരണം നമുക്ക് എടുക്കാം ഒരു ആശാരി ഒരു കസേര ഉണ്ടാക്കുന്നത് ഒന്ന് ഭാവന ചെയ്തു നോക്കൂ അദ്ദേഹം മരം എടുത്ത് രാകി മിനുക്കി കഷണങ്ങളാക്കി ആ കഷണങ്ങളെ ശരിയായി വിന്യസിച്ച് അദ്ദേഹം ഒരു കസേര ഉണ്ടാക്കുന്നു അതിനായി അദ്ദേഹം അതിൻറെ പ്ലാൻ വയ്ക്കുകയോ വരച്ചു നോക്കുന്നതിന് പേനയും കടലാസും ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല അത് ചെയ്യാൻ താൻ എന്തെങ്കിലും ബുദ്ധിപരമായ അധ്വാനം ചെയ്യുന്നു എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണം എന്ന് പോലുമില്ല വാസ്തവത്തിൽ അദ്ദേഹം കസേര ഉണ്ടാക്കുന്നത് കാണുന്ന മറ്റൊരാൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം മാനുഷിക അധ്വാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിനെ നമ്മൾ ശാരീരിക അധ്വാനം എന്ന് വിളിക്കുന്നു അതിന് പിന്നിലുള്ള മാനസികമായ അധ്വാനത്തെ ഇവിടെ വേർതിരിച്ചു കാണുവാൻ സാധിക്കുന്നത് പോലുമില്ല എന്നാൽ അദ്ദേഹത്തിൻറെ പ്രവർത്തി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അദ്ദേഹം ചെലുത്തുന്ന ശാരീരിക അധ്വാനത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുമുണ്ട് ബുദ്ധി ഈ പ്രവർത്തിയുടെ പിന്നിലുള്ള മാനസിക അംശത്തെ മൂടി കളയുകയാണ് മാനസിക അധ്വാനത്തിൽ നിന്നും ഉളവാകുന്ന സിദ്ദികളെയും അത് മൂടുന്നു ചില സമയങ്ങളിൽ ഈ ശാരീരിക അംശത്തെയും മാനസിക അംശത്തെയും വേർതിരിക്കുക ബുദ്ധിമുട്ടാണ് കാരണം ഒരു ആശാരിയുടെ കയ്യിൽ നിന്നും പുറത്തു വരുന്ന ഒരു പ്രത്യേക പ്രവർത്തിയോ സിദ്ധിയോ അദ്ദേഹത്തിൻറെ ശാരീരിക മാനസിക സിദ്ധികളുടെ ഒരു കൂടിച്ചേരലിൽ നിന്നും ഉളവാകുന്നതാണ് അതുകൊണ്ട് ഒരു പ്രവർത്തിയുടെ പിന്നിലുള്ള ശാരീരികമായ അംശത്തെയും മാനസികമായ അംശത്തെയും വേർതിരിച്ച് പറയുക എളുപ്പമല്ല ഈ ആശയത്തെ കൂടുതൽ ഭംഗിയായി മനസ്സിലാക്കുന്നതിന് നമുക്ക് ഇങ്ങനെ ഗ്രഹിക്കാം മുകളിൽ പറഞ്ഞ ഉദാഹരണത്തിൽ നമുക്ക് ആശാരിയുടെ ശാരീരികമായ പരിശ്രമങ്ങളും ശാരീരികമായ അധ്വാനവും മാത്രമാണ് കാണുവാൻ സാധിച്ചത് എന്നാൽ ഒരു കസേര ഭാവന ചെയ്യുന്നതിനും അതിനെ ഒരു യാഥാർഥ്യമാക്കി നിർമ്മിക്കുന്നതിനും അദ്ദേഹം ചെലുത്തിയ മാനസികമായ അധ്വാനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല അതുപോലെതന്നെ ഒരെഴുത്തുകാരൻ എഴുതുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് മാത്രമാണ് ദിവസങ്ങളോളം പേനയും പേപ്പറും ഉപയോഗിച്ച് പുസ്തകം പൂർത്തിയാകുന്നതുവരെ അദ്ദേഹം കഠിനമായി അധ്വാനിക്കുന്നത് ഏതൊരു എഴുത്തുകാരൻറെ കാര്യത്തിലും അത് ആരു തന്നെ ആയിക്കൊള്ളട്ടെ ഇക്കാര്യം പ്രസക്തമാണ് അദ്ദേഹം ഒരു ടെക്സ്റ്റ് ബുക്കിൻറെ എഴുത്തുകാരൻ ആയിരിക്കാം ആർക്കെങ്കിലും ഒരു കത്ത് എഴുതുന്ന വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലുമൊരു ഉൽകൃഷ്ട സൃഷ്ടിയുടെ കർത്താവായിരിക്കാം എല്ലാവരുടെ കാര്യത്തിലും സ്ഥിതി ഒന്നു തന്നെയാണ് എന്നാൽ വ്യത്യസ്തമായ ഈ പ്രവർത്തികളിൽ ആളുകൾ ചെലുത്തുന്ന മാനസികമായ അധ്വാനം വ്യത്യസ്തമാണ് അധ്വാനത്തിലൂടെ പുറത്തു വരുന്ന ഫലത്തിൻറെ ഗുണഗണങ്ങളിലും വ്യത്യാസം ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇന്റെലക്ച്വൽ അഥവാ ബുദ്ധിപരത എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്നത് ഒരു സൃഷ്ടിപരമായ പ്രവർത്തിയിൽ ഒരു വ്യക്തി ചെലുത്തിയ മാനസികമായ അധ്വാനത്തെ ആണ് അല്ലെങ്കിൽ സൃഷ്ടിപരമായ പരിശ്രമങ്ങളെയാണ് അത് ഒരുപക്ഷേ ശാരീരികവും മാനസികവുമായ സിദ്ധികളുടെ ഒരു സങ്കലനം അഥവാ സംയുക്തം ആയിരിക്കാം ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയിൽ ഇൻൻറലെക്റ്റിനെ നമ്മൾ അന്വേഷിക്കുന്നത് ഇവിടെയാണ് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് മനുഷ്യർക്ക് മാത്രം പ്രത്യേകമായുള്ള ഒരു സവിശേഷതയാണ് എന്ന് ബുദ്ധിപരമായ വ്യാപാരത്തിൽ നിന്നും ഉളവാകുന്ന ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് ഈ പറഞ്ഞ മനുഷ്യൻറെ മാത്രം പ്രത്യേകതയായ ഈ ശക്തിയെ അഥവാ സിദ്ധിയെ കുറിച്ചാണ് ഉദാഹരണത്തിന് നമ്മൾ ഒരിക്കലും പറയാറില്ല ഒരു കലാകാരനോ തുന്നൽക്കാരനോ വസ്ത്രങ്ങൾ ചിത്രത്തുന്നൽ ചെയ്യുവാൻ കളർ നൂലുകൾ ഉപയോഗിച്ചുവെന്ന് അതേ പ്രവർത്തി ഇന്ന് ഒരു തുന്നൽ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഒരു തുന്നൽ മെഷീൻ ചെയ്യുന്ന പ്രവർത്തിയെ നമ്മൾ ഒരിക്കലും ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടിയായി ഗണിക്കാറുമില്ല കാരണം തുന്നൽ മെഷീൻ ഉണ്ടാകുന്നതിന് വളരെ മുൻപേ ഈ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു മനുഷ്യർ കളർ നൂലുകൾ ഉപയോഗിച്ച് സഹജവും നൈസർഗികവുമായ മാതൃകകൾ തുന്നാറുണ്ടായിരുന്നു അതേസമയം ഒരു തുന്നൽക്കാരൻ അത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു കഷ്ണം തുണിയിൽ ചിത്രത്തുന്നൽ നടത്തുമ്പോൾ അദ്ദേഹത്തിൻറെ ആ പ്രവർത്തിയിൽ ബുദ്ധിപരമായ അധ്വാനം അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു അപ്പോൾ ഇന്റെലക്ച്വൽ എന്നത് നമ്മൾ വ്യതിരിക്തമായി കാണുകയാണ് വേർതിരിച്ച് മനസ്സിലാക്കുകയാണ് ഇന്റെലക്ച്വൽ ആയിട്ടുള്ള പ്രവർത്തികൾ അഥവാ ബുദ്ധിപരമായ പ്രവർത്തികൾ ഒരു മനുഷ്യനിൽ നിന്നും വരുന്നതാണ് മറിച്ച് അതൊരിക്കലും ഒരു മെഷീനിൽ നിന്നും വരുന്നില്ല ഇന്റെലക്ച്വൽ എന്നത് മനുഷ്യർക്കു മാത്രം സഹജമായതാണെന്നും മറ്റൊരു ജീവികൾക്കും അത് ഇല്ലെന്നും കൂടി നമ്മൾ മനസ്സിലാക്കുന്നു